ഈ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് ക്ലൌഡ് സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ച തുടരുന്നു ക്ലൌഡ് വീക്ഷണകോണുമായി ബന്ധപ്പെട്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കും അവസാന പ്രഭാഷണത്തിൽ സുരക്ഷയ്ക്ക് വ്യത്യസ്ത വശങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടതുപോലെ സുരക്ഷാ ആശയങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ ഘടകങ്ങൾ മറ്റ് ഭാഗങ്ങൾക്ക് ഭീഷണികളാണെന്നത് പോലെ നയ സംവിധാനങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് വിശ്വാസപരമായ അനുമാനങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അപകടസാധ്യത ഉണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ നമ്മൾ അവലോകനം നടത്തുമ്പോൾ അവയെല്ലാം പരിശോധിക്കേണ്ടതുണ്ട് അതേപോലെ ക്ലൌഡ് ഉൾപ്പെടെയുള്ള ഏത് തരത്തിലുള്ള ഇൻഫർമേഷൻ സിസ്റ്റത്തിലും ഇവ പ്രകടമാകുമെന്ന് നമ്മൾ കണ്ടതോ ചർച്ച ചെയ്തതോ ആയതിനാൽ ക്ലൌഡിന് മറ്റ് ചില പ്രത്യേകതകൾ ഉണ്ട് വ്യത്യസ്ത സ്വഭാവസവിശേഷതകൾ എന്താണെന്നും ഈ സുരക്ഷ എന്തുകൊണ്ട് പ്രധാന ഘടകമായി മാറുന്നുവെന്നും കാണാൻ നമ്മൾ ശ്രമിക്കും ക്ലൌഡ് കമ്പ്യൂട്ടിംഗിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ ലളിതമായി ക്ളൌഡ് എന്നത് വിശദീകരിക്കാൻ ശ്രമിച്ചാൽ ഒരു ഭാഗം ചെയ്യുന്നത് ഒരു ഇലാസ്റ്റിക് റിസോഴ്സ് സ്കേലബിളിറ്റിയാണ് ഉണ്ട് ആവശ്യാനുസരണം ടൈം പ്രൊവിഷനിംഗ് ഉണ്ടായിരിക്കണം മറ്റൊരു പ്രധാന വശം ഉണ്ട് മൂന്നാമതായി അത് ഒരു മാതൃകയിൽ ആയിരിക്കരുത് നമ്മൾ പറയുന്ന ഒരു മീറ്റർ സേവനം നൽകുക നിങ്ങൾ മോഡലിലേക്ക് പണമടയ്ക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ മോഡലിലേക്ക് പോകുമ്പോൾ ഉള്ളതുപോലെ ഞാൻ കാര്യങ്ങൾക്കായി പണം നൽകുമ്പോൾ അതിനർത്ഥം റിസോഴ്സ്സ് നേടിക്കൊണ്ടിരിക്കുകയാണ് ഈ തരത്തിലുള്ള നയങ്ങൾക്ക് ചുറ്റുമുള്ള സുരക്ഷയുടെ ഈ മാതൃക മുഴുവനും അവസാനിക്കേണ്ട കാര്യങ്ങളുടെ മാർഗ്ഗത്തിലേക്ക് നൈപുണ്യം വർദ്ധിപ്പിക്കും ഇത് ഒരു ഗുരുതരമായ വെല്ലുവിളിയായി മാറുന്നു അതിനാലാണ് സമ്പൂർണ്ണ ക്ളൌഡ്ലേക്ക് പോകുന്നതിന് ആ സംഘടനകളുടെ എണ്ണം അൽപ്പം വിമുഖത കാണിക്കുന്നത് അത് സാമ്പത്തികമായി ചില സമയങ്ങളിൽ പ്രയോജനകരമാണ് നിങ്ങൾ ആവശ്യമുള്ളത്രയും കുറഞ്ഞതും ഉപയോഗിക്കുക ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുക നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മാത്രം പണം നൽകുക ഇതാണ് തത്വശാസ്ത്രവും എന്നാൽ ഉപഭോക്താവിനായി ക്ലൌഡ് കമ്പ്യൂട്ടിംഗിന്റെ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നതിന് മുൻകൂറായി ചിലവുകൾക്ക് ഉപയോഗത്തെ സ്കെയിൽ ചെയ്യാൻ കഴിയില്ല ആവശ്യമുള്ളപ്പോൾ തീർച്ചയായും അത് കുറയ്ക്കാൻ കഴിയും ദാതാവിന് ഡാറ്റാ സെന്റർ റിസോഴ്സ്സ്കളുടെ വർദ്ധിച്ച വിനിയോഗം ഉണ്ട് അതിനാൽ ദാതാവിന് ധാരാളം റിസോഴ്സ്സ് ഉണ്ട് കൂടാതെ റിസോഴ്സ്സ്കളുടെ വർദ്ധിച്ച വിനിയോഗവുമാണ് പ്രധാന വശങ്ങളിലൊന്ന് ഇത് വിൻ വിൻ സാഹചര്യമാണെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവരും ക്ളൌഡ് ഉപയോഗിക്കാത്തത് ഒരു പ്രധാന കാര്യം ക്ലൌഡ് ഇപ്പോഴും പരമ്പരാഗത ഡാറ്റ രഹസ്യാത്മകത സമഗ്രത ലഭ്യത സ്വകാര്യത പ്രശ്നങ്ങൾ എന്നിവയും ചില അധിക ആക്രമണങ്ങൾക്കും വിധേയമാണ് എന്നതാണ് ഇത് ഉപഭോക്താവിന് സന്തോഷമുണ്ടെങ്കിൽ ദാതാവ് സന്തുഷ്ടനാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള സാഹചര്യം കാരണം എല്ലാം ക്ലൌഡ് ചെയ്യാൻ പോകുന്നത് കാരണം SaaS ൽ ഡാറ്റാ രഹസ്യാത്മകത സമഗ്രത ലഭ്യത സ്വകാര്യത മുതലായവ ക്ലൌഡുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഉണ്ട് 2008 ൽ ഐഡിസി ഇന്റർ പ്രൈസ് പാനൽ നടത്തിയ ചില റഫറൻസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ പറയുന്നത് പ്രധാന വെല്ലുവിളികൾ അല്ലെങ്കിൽ പ്രശ്നം സുരക്ഷാ അവകാശo പ്രകടനവും ലഭ്യതയും മറ്റും ആണ് ഇത് അവരുടെ സർവേയിൽ നിന്നുള്ള ഒരു കാര്യമാണ് കാര്യങ്ങളിലെ വെല്ലുവിളികളും പ്രശ്നങ്ങളും നിങ്ങൾ നോക്കുമ്പോൾ സുരക്ഷ ഇപ്പോഴും ഉയർന്ന തലത്തിലാണ് അത് സുരക്ഷിതമല്ലാത്തത് പോലെയല്ല എനിക്ക് ഇത് നിർവചിക്കാൻ കഴിയുന്നില്ല അത് അരക്ഷിതാവസ്ഥ മാത്രമല്ല നമ്മൾ നിർവചിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ കൃത്യമായി നിർവചിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു അല്ലെങ്കിൽ സിസ്റ്റങ്ങളിലോ ദാതാക്കളിലോ എനിക്ക് അത്ര വിശ്വാസമോ ഇല്ല സമാനമായ ക്ലൌഡ് ബാരിയറുകളെക്കുറിച്ചുള്ള സർവേയും കാര്യങ്ങളിലേക്ക് പോകുന്നത് തടയുന്നുവെന്നതും ഇവിടെ സുരക്ഷയാണ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതെന്നും പറയുന്നു ഇവിടെ പുതിയ ഭീഷണികൾ വരാനിടയുള്ളത് കൊണ്ട് പരമ്പരാഗത സിസ്റ്റം സുരക്ഷയാണ് കൂടുതലും സൂക്ഷിക്കുന്നത് അതിനർത്ഥം ആക്രമണകാരികളെ ശരിയായി സൂക്ഷിക്കുക എന്നതാണ് ഐഐടി ഖരഗ്പൂർ ഈ നെറ്റ്വർക്കിനൊപ്പം ഒരു എന്റർപ്രൈസായി സുരക്ഷിതമാക്കേണ്ടതുണ്ടെന്നും വളരെ ശക്തമാണെന്നും ഞാൻ പറയും ആക്രമണകാരികൾ പുറത്തായതിനാൽ ആന്തരിക ആക്രമണകാരികളെയും ശരിയായി നിലനിർത്താൻ എനിക്ക് വ്യത്യസ്ത സംവിധാനങ്ങളുണ്ട് പക്ഷേ ആക്രമണകാരിക്ക് ആധികാരികത ഉറപ്പാക്കാനോ ആക്സസ് കൺട്രോൾ സിസ്റ്റത്തിൽ ഇത് കോ ടെനന്റാണ് നിയമാനുസൃതമായി ഉപയോഗിക്കാൻ കഴിയും ഉപഭോക്താവിന് സ്വന്തം ഡാറ്റയുടെയും ആപ്ലിക്കേഷന്റെയും മേലുള്ള നിയന്ത്രണക്കുറവ് നിയമാനുസൃതമായി ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ സേവന ദാതാവിന്റെ പരിസരത്ത് നിന്നോ തന്നെ ഇത് സേവനങ്ങളുടെ ആപ്ലിക്കേഷനുകളിൽ നിയന്ത്രണമോ അഭാവമോ ആണ് മാത്രമല്ല പരസ്പരം വിധി പങ്കിടുന്നു അതും ഒരു വെല്ലുവിളിയാണ് പരമ്പരാഗത സുരക്ഷാ നടപടികളുടെ കാര്യത്തിൽ വലിയ തോതിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് കോ ടെനൻസിയിലൂടെ നിയന്ത്രണ വിധി പങ്കിടുന്നത് ചില സാഹചര്യങ്ങളിൽ സുരക്ഷയെ നോക്കാനുള്ള ഒരു പുതിയ മാർഗമാണിത് വ്യത്യസ്ത 3 പ്രമുഖ സേവന മോഡലുകളായ IaaS PaaS SaaS എന്നിവ നോക്കിയാൽ ഐഎഎസിന്റെ കാര്യത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ദാതാവിനുണ്ട് ബാക്കി കാര്യങ്ങൾ ഉപഭോക്താവിന്റെ ഉത്തരവാദിത്തമാണ് അതിനർത്ഥം ഞാൻ IaaS PaaS ലേക്ക് SaaS ലേക്ക് പോകുമ്പോഴെല്ലാം വർദ്ധനവ് ദാതാക്കളുടെ ഉത്തരവാദിത്തമാണ് ശരി ദാതാവിന് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഉപഭോക്തൃ ഉത്തരവാദിത്തം വർദ്ധിക്കുകയാണെങ്കിൽ അത് IaaS ലേക്ക് പോകുമ്പോൾ അത് പരമാവധി ആണ് ആരെങ്കിലും IaaS PaaS മുതലായവ എടുക്കുമ്പോഴെല്ലാം ഇത് തീർച്ചയായും വ്യക്തിഗത ആവശ്യത്തിന്റെ ഓർഗനൈസേഷനും അതോടൊപ്പം സിസ്റ്റത്തിൽ വിന്യസിക്കേണ്ട സുരക്ഷാ വശങ്ങളും നോക്കേണ്ടതുണ്ട് ഇപ്പോൾ സാധാരണ സാഹചര്യങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതെന്തെന്നാൽ സ്വകാര്യ ക്ലൌഡിന്റെ കാര്യത്തിൽ ഓർഗനൈസേഷണൽ ക്ലൌഡ് ഐഐടി ഖരഗ്പൂർ ക്ലൌഡ് എന്ന് പറയുന്നു ഇതിന് 3 ബിസിനസ്സുണ്ട് നിങ്ങൾക്ക് ബിസിനസ്സ് എ ബിസിനസ് ബി ബിസിനസ് സി എന്നിവ കൂടാതെ ബിസിനസ്സ് എ യുടെ വിഎമ്മുകളിലൊന്ന് പങ്കിടാൻ എനിക്ക് അവസരമുണ്ട് ഡേറ്റാ സെന്ററിലോ ഇൻഫ്രാസ്ട്രക്ചറിലോ ബിസിനസ്സ് ബി ഉള്ളിടത്ത് സി വേർതിരിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അങ്ങനെ തന്നെ സേവനങ്ങളോ ഡാറ്റയോ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ മറ്റൊന്നിൽ അല്ലെങ്കിൽ ഫിസിക്കൽ സിസ്റ്റങ്ങളിൽ നിൽക്കുന്നു അതേസമയം പൊതുജനത്തിന്റെ കാര്യത്തിൽ സമാനമായി ഒരു പൊതു ക്ലൌഡിനായി ഒരേ ഇൻഫ്രാസ്ട്രക്ചർ പങ്കിടുന്ന വ്യത്യസ്ത ഉപഭോക്താക്കളുണ്ടാകാം ഒപ്പം കാര്യങ്ങൾ തമ്മിൽ ആശയവിനിമയത്തിനുള്ള ഒരു സാധ്യതയുമുണ്ട് വിഎംഎം വിട്ടുവീഴ്ച ചെയ്തേക്കാം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ആക്രമണമുണ്ടാകാം ഉപഭോക്താവിന്റെ നിയന്ത്രണത്തിന് അതീതമായ അല്ലെങ്കിൽ ക്ലൌഡ് സേവന ഉപഭോക്താവിനോ ഉപയോക്താക്കൾക്കോ ഇതിൽ യാതൊരു നിയന്ത്രണവുമില്ല അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ആശ്രയിക്കുന്നതിനപ്പുറം ഇതിൽ കൂടുതൽ നിയന്ത്രണങ്ങളില്ലാത്ത വ്യത്യസ്ത തരം കാര്യങ്ങൾ ഇവയാണ് SLA കളും ദാതാക്കളുടെ റിപ്പോർട്ടിംഗും എങ്ങനെയാണ് ഗാർട്ട്നറുടെ ഏഴ് ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് സുരക്ഷാ റിസ്ക് പാരാമീറ്ററുകൾ ഉണ്ട് അവ ഡാറ്റാ ഇന്റഗ്രിറ്റി റിക്കവറി സ്വകാര്യത ഇ ഡിസ്കവറി റെഗുലേറ്ററി പാലിക്കൽ കാര്യങ്ങളുടെ തരം മേഖലകളിലെ നിയമപരമായ പ്രശ്നങ്ങൾ അവയുടെ വിലയിരുത്തൽ മേഖലകളിലെ റിസ്ക് വിലയിരുത്തൽ ഇവയാണ് ഗാർട്ട്നർ ഒരു അവസരമുണ്ട് അത് എത്രത്തോളം ദൈർഘ്യവും പ്രവർത്തനക്ഷമതയും ഉള്ളതായി കാണും എന്റർപ്രൈസിന് തോന്നിയേക്കാം അതേസമയം ദാതാവിന് അതിന്റെ നിയന്ത്രണങ്ങളുടെ എണ്ണം നഷ്ടപ്പെടും അടുത്തത് റെഗുലേറ്ററി കോംപ്ലിയൻസ് വിധേയമാണ് നമ്മളുടെ പരമ്പരാഗതമായി ഹൌസ് സേവനങ്ങളിൽ കമ്പ്യൂട്ടിംഗ് ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് ദാതാക്കളുണ്ട് അവർ സൂക്ഷ്മപരിശോധനയ്ക്ക് വിധേയരാകാൻ വിസമ്മതിക്കുന്നു ഉപഭോക്താവിന് അവ വളരെ നിസ്സാരമായ പ്രവർത്തനങ്ങൾക്കായി മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് ദാതാക്കളുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓഡിറ്റ് മുതലായവ ഒരു തന്ത്രപരമായ കാര്യമായി മാറുന്നു നിങ്ങളുടെ ഡാറ്റ ഉള്ളതിനാൽ ഇൻഫ്രാസ്ട്രക്ചറിൽ നിങ്ങൾക്ക് നിയന്ത്രണമില്ല ഓഡിറ്റ് വിജയകരo ആക്കുന്നത് ദാതാവ് അയച്ചവയുടെയോ അല്ലെങ്കിൽ ദാതാവ് അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാലനവും കാര്യങ്ങളും അത്തരത്തിലുള്ളതാണോ എന്നത് നോക്കും SLA ഇത് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും അപകടസാധ്യതയുണ്ട് അല്ലെങ്കിൽ സുരക്ഷാ പഴുതുകൾ നമ്മൾ പറയുന്നു വിശ്വസ്തനായ മൂന്നാം കക്ഷി ഓഡിറ്ററിൽ ഓർഗനൈസേഷന് പുറത്തുള്ള ഡാറ്റ ഓഡിറ്റ് ചെയ്യാൻ സാധാരണയായി കസ്റ്റമർ സൈഡ് ഓഡിറ്റ് എങ്ങനെ ഉണ്ടാകും എന്ന മറ്റൊരു ചോദ്യമുണ്ടെന്ന് പറയാം ഡാറ്റാ ലൊക്കേഷൻ ഒരു പ്രധാന പ്രശ്നമാണ് എന്റെ ഡാറ്റ ഹോസ്റ്റുചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ ഡാറ്റ പങ്കിടുന്നിടത്ത് ഈ രാജ്യത്തിലായാലും പുറം രാജ്യത്തിലായാലും നമ്മുടെ രാജ്യത്തിന്റെ ഈ അധികാരപരിധി ഉണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് എനിക്ക് ഒരു സൂചനയും ഇല്ല ഇത് ഒരു പ്രധാന പ്രശ്നമായി മാറുന്നു ഗ്രാഫിക്കായി ചിതറിക്കിടക്കുന്ന സ്ഥലത്ത് സ്ഥിതിചെയ്യുന്ന വ്യത്യസ്ത അധികാരപരിധികളും നിയന്ത്രണങ്ങളും നിയമപരമായ പ്രത്യാഘാതങ്ങളും യുഎസിലോ മറ്റ് ചില രാജ്യങ്ങളിലോ സംരക്ഷിക്കപ്പെടുന്ന ഡാറ്റ സൂക്ഷിക്കുന്നതുപോലുള്ള വ്യത്യസ്ത നിയമപരമായ പ്രത്യാഘാതങ്ങളുണ്ട് പക്ഷേ നമ്മൾക്ക് ഇല്ല നമ്മൾക്ക് ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളുണ്ട് മാത്രമല്ല ഡാറ്റ അവിടെ സംഭരിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ നിയമം ആ വിഷയത്തിൽ നിലനിൽക്കുമെന്നത് ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നു ഗാർട്ട്നർ ചൂണ്ടിക്കാണിച്ച മറ്റൊരു പ്രശ്നമാണ് ഡാറ്റാ വേർതിരിക്കൽ മറ്റ് അന്തിമ ഉപഭോക്താക്കളിൽ നിന്നുള്ള ഡാറ്റയ്ക്കൊപ്പം ക്ലൌഡിലെ ഡാറ്റ സാധാരണയായി ഒരു പങ്കിട്ട അന്തരീക്ഷത്തിലാണ് എൻക്രിപ്ഷൻ ഫലപ്രദമാണ് എന്നാൽ എല്ലാത്തരം പരിഹാരങ്ങളും ഉണ്ട് എന്താണ് ചെയ്തതെന്ന് കണ്ടെത്തുക ഡാറ്റ വേർതിരിക്കുന്നതിന് മറ്റൊരു പ്രധാന പ്രശ്നം പ്രോസസ്സ് ഉണ്ടായിരിക്കണം ഇവ നിരവധി വെല്ലുവിളികളാണ് അവ ഡാറ്റാ വേർതിരിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവ നമ്മൾ അധിക സിസ്റ്റങ്ങൾ ഉപയോഗിക്കുമ്പോൾ വലിയ തോതിൽ ഇല്ല മറ്റൊരു കാര്യം നമ്മൾ വളരെ ആശങ്കാകുലരാണ് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അവകാശം വീണ്ടെടുക്കൽ സംവിധാനം കാണുന്നത് നിങ്ങളുടെ ദാതാക്കളായ ഡാറ്റ എവിടെയാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഡാറ്റയ്ക്കും സേവനങ്ങൾക്കും എന്ത് സംഭവിക്കുമെന്ന് നിങ്ങളോട് പറയുക എന്നതാണ് ഒരു ദുരന്തമുണ്ടെങ്കിൽ ഡാറ്റയ്ക്ക് എന്ത് സംഭവിച്ചു ഒരു സ്റ്റോറിൽ സംഭരണത്തിൽ ഞാൻ എന്റെ ഡാറ്റ സംഭരിക്കുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ മുഴുവൻ വീണ്ടെടുക്കലിനും എത്ര സമയം വേണം എല്ലാം വീണ്ടെടുക്കാനാകുമോ എന്നിവ ഉയർന്നു വരുന്ന ചോദ്യങ്ങളാണ് 2 ആശയങ്ങൾ ഉണ്ട് ഒന്ന് ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ റിക്കവറി പോയിന്റ് ഒബ്ജക്റ്റീവ് 2 തരത്തിലുള്ള കാര്യങ്ങൾ പിന്തുടരുന്നത് ഒരേ കാര്യത്തിന്റെ തനിപ്പകർപ്പ് അല്ലെങ്കിൽ സിസ്റ്റങ്ങളുടെയും നിർണായക ഘടകങ്ങളുടെയും ആവർത്തന അല്ലെങ്കിൽ തനിപ്പകർപ്പിന്റെയും തരമാണ് അനുചിതമായ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ പ്രവർത്തനം അന്വേഷിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു റിസ്ക് ഘടകത്തെ അന്വേഷണാത്മക പിന്തുണയ്ക്കുന്നു ക്ലൌഡ് കമ്പ്യൂട്ടിംഗിൽ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ അന്വേഷിക്കണം എന്നതുപോലുള്ള കാര്യങ്ങൾ അസാധ്യമാണ് പ്രത്യേകിച്ച് ഉപഭോക്താവിന്റെ ഭാഗത്ത് കൂടുതൽ നിയന്ത്രണമില്ല അതിനാൽ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിൽ വലിയ നിയന്ത്രണവുമില്ല ദീർഘകാല പ്രവർത്തനക്ഷമത വർക്ക് പ്രോസസ്സുകൾ ക്ലൌഡിലേക്ക് ഞാൻ പ്രയോജനപ്പെടുത്തുന്നു ഒപ്പം ഒരു ദീർഘകാല പ്രവർത്തനക്ഷമത കാര്യങ്ങളിലോ അല്ലെങ്കിൽ കാര്യങ്ങളുമായി ദീർഘകാല ക്രമീകരണത്തിലോ അവസാനിക്കുന്നു ദാതാവിനോട് ചോദിക്കുക പകരംവയ്ക്കൽ ആപ്ലിക്കേഷൻ മുതലായവയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഫോർമാറ്റിലാണെങ്കിൽ നിങ്ങളുടെ ഡാറ്റ എങ്ങനെ തിരികെ ലഭിക്കും ഒരു ദാതാവിൽ നിന്ന് മറ്റൊരു ദാതാവിലേക്ക് തുടർന്ന് ഡാറ്റ എങ്ങനെ ഉണ്ടാകും ദാതാവുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്റെ ഡാറ്റ എങ്ങനെ വീണ്ടെടുക്കാനാകും എപ്പോൾ ക്ലൌഡ് ദാതാവിന്റെ കരാർ വില വർദ്ധന ദാതാവ് പാപ്പരത്വ ദാതാവിന്റെ സേവന ഷട്ട്ഡൌൺ സേവന നിലവാരത്തിലുള്ള ബിസിനസ്സ് തർക്കത്തിൽ കുറയുന്നു പ്രധാനമായും ഉപഭോക്താവിന് ക്ലൌഡ് ദാതാക്കളെ സ്വിച്ചുചെയ്യുന്നതിന് പ്രധാനം വെണ്ടർ ലോക്ക് ഇൻ ആണ് പ്രത്യേക ദാതാവിനൊപ്പം ഉപയോക്താവ് ലോക്ക് ചെയ്യപ്പെടും ആ ലോക്കിൽ നിന്ന് വീണ്ടെടുക്കാൻ വളരെ പ്രയാസമാണ് ഇവയാണ് പ്രധാന ഗാർട്ട്നർ പ്രശ്നങ്ങൾ നിർണായകമായ ചില പ്രശ്നങ്ങൾ കൂടി വിമർശനാത്മകമാണ് വിർച്വലൈസേഷൻ ആണ് വിർച്വലൈസേഷൻ ഈ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിന്റെ താക്കോലായി മാറുന്നു എനിക്ക് ഒരു വിഎം ഉണ്ടെങ്കിൽ അതിനർത്ഥം അടിസ്ഥാനപരമായി വിഎംഎം കൈകാര്യം ചെയ്യുന്നതിൽ നിന്നാണ് ഇത് വികസിച്ചത് ഇപ്പോൾ വിഎംഎം വിട്ടുവീഴ്ച ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ വിഎമ്മിന്റെ വ്യത്യസ്ത പ്രക്രിയകൾപോലും ഒരു പരിധിവരെ വിട്ടുവീഴ്ച ചെയ്യുമ്പോഴും എന്റെ പ്രശ്നത്തിലാണ് മുഴുവൻ സിസ്റ്റവും കുഴപ്പത്തിലാണ് നിങ്ങൾ വിർച്വലൈസേഷൻ നോക്കിയാൽ 2 ഘടകങ്ങളുണ്ട് വിഎംഎമ്മിലെ വിർച്വൽ മെഷീൻ ഒന്ന് അല്ലെങ്കിൽ നമ്മൾ കണ്ടതുപോലെ ഹൈപ്പർവൈസർ അല്ലെങ്കിൽ വെർച്വൽ മെഷീൻ മോണിറ്റർ 2 തരം പ്രാഥമികമായി 2 തരം വിർച്വലൈസേഷൻ ഒന്ന് ഹാർഡ്വെയറുമായി സംവദിക്കുന്ന ഹൈപ്പർവൈസറിൽ പ്രവർത്തിക്കുന്ന പൂർണ്ണ വിർച്വലൈസേഷൻ വിഎമ്മുകളാണ് ഹൈപ്പർവൈസറിനും ബാക്കി ഹാർഡ്വെയറിനുമിടയിൽ വിഎം ഉണ്ടെന്നത് ഹോസ്റ്റ് ഒഎസുമായി ഒരൊറ്റ വിർച്വൽ മെഷീനിലെ വെർച്വൽ ടെർമിനലുകളിലൂടെ കൈമാറാൻ പ്രാപ്തമാക്കുന്ന 1 ബൺ ഒന്ന് ഇവ വസ്തുക്കളുടെ ചില സവിശേഷതകളാണ് അത് ഒരു ഭീഷണിയായിത്തീരുന്നു അവിടെ ഒരു റോഗ് ഹൈപ്പർവൈസർ റൂട്ട് കിറ്റുകൾ ചെയ്യാൻ ഒരു രഹസ്യ ചാനൽ സൃഷ്ടിക്കുക ആണ് ചെയ്യുന്നത് അതിന് അനധികൃത കോഡുകൾ ഉപയോഗിച്ച് ഡംപ് ചെയ്യാൻ ഒരു രഹസ്യ ചാനൽ സൃഷ്ടിക്കാൻ പോലും കഴിയും വിഎമ്മിന്റെ ശരിയായ കോൺഫിഗറേഷനിൽ ഹൈപ്പർവൈസറിന്റെ ബാഹ്യ പരിഷ്ക്കരണങ്ങൾ അല്ലെങ്കിൽ വിഎം രക്ഷപ്പെടൽ പോലുള്ള മറ്റ് ഹൈപ്പർവൈസർ അപകടസാധ്യതകളുണ്ട് സേവന ആക്രമണങ്ങൾ നിരസിക്കുന്ന മറ്റ് പ്രശ്നങ്ങളുണ്ടാകാം വെർച്വൽ റിസോഴ്സുകളിലേക്കുള്ള അനധികൃത ആക്സസ് രഹസ്യങ്ങളുടെ സമഗ്രത ലഭ്യത നഷ്ടപ്പെടുന്ന ഭീഷണികളുണ്ട് ഇവയാണ് ഇവയുടെ വ്യത്യസ്ത പ്രശ്നങ്ങൾ വ്യത്യസ്ത ഭീഷണികൾ രഹസ്യാത്മക സമഗ്രത ലഭ്യതയുടെ ഉയർന്ന നഷ്ടം എന്നിവയാണ് ഈ തരത്തിലുള്ള സിഐഎയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ നമ്മൾ പരാമർശിക്കുന്നത് നമ്മളുടെ മുൻപിൽ വരും ആക്സസ്സ് നിയന്ത്രണം ഒരു വലിയ നേട്ടമാണ് കാരണം ആക്സസ്സ് നിയന്ത്രണത്തിലൂടെ കടന്നുപോയവർ ട്രോൾ ബേസ് ആക്സസ്സ് നിയന്ത്രണവും വ്യത്യസ്ത തരം MAC ഉം ആണ് DAC തരം കാര്യങ്ങൾ പരമ്പരാഗതമായി ഹൌസ് നെറ്റ്വർക്കിന് സമാനമായ ആക്സസ്സ് നിയന്ത്രണവും വിവര സുരക്ഷയുടെ സിഐഎ തത്ത്വങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശരിയായ ആക്സസ്സ് നിയന്ത്രണവും ഉണ്ട് ഐഡന്റിറ്റി മോഷണം തടയുന്നത് പ്രധാന വെല്ലുവിളി പ്രധാനമായും വൻതോതിലുള്ള ഡാറ്റ മൈനിംഗ് വഴിയുള്ള സ്വകാര്യത പ്രശ്നങ്ങൾ ആണ് അതിനാൽ ഉപയോക്താവിന്റെ ഐഡന്റിറ്റി അല്ലെങ്കിൽ ക്ലൌഡ് സർവീസ് ഉപഭോക്തൃ ഐഡന്റിറ്റി മാനേജുമെന്റ് കണ്ടെത്തുന്നതിന് എനിക്ക് ചില പഠന സാങ്കേതികതകളും ഡാറ്റ മൈനിംഗ് ടെക്നിക്കുകളും സവിശേഷതകളും അടിസ്ഥാനമാക്കി പ്രാമാണീകരിക്കുന്നു വ്യത്യസ്ത സവിശേഷതകളെ അടിസ്ഥാനമാക്കി ഇത് ഉപയോക്താക്കളെയും സേവനങ്ങളെയും പ്രാമാണീകരിക്കേണ്ടത് ആണെന്ന് നോക്കാൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞു ആപ്ലിക്കേഷൻ വെബ് അധിഷ്ഠിതമാണ് മിക്ക ആപ്ലിക്കേഷനുകളും വെബ് അധിഷ്ഠിതമാണ് ഇഞ്ചക്ഷൻ അറ്റാക്ക് xml സിഗ്നേച്ചർ എലമെന്റ് റാപ്പിംഗ് അറ്റാക്ക് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് അറ്റാക്ക് ഫ്ലഡിങ് മറ്റും ഇടയാക്കും ഡാറ്റ ലൈഫ്സൈക്കിൾ മാനേജുമെന്റ് നോക്കേണ്ടതുണ്ട് ക്ലൌഡിൽ സംഭരിച്ചിരിക്കുന്ന തന്ത്രപ്രധാനമായ ഡാറ്റ രഹസ്യാത്മകമായി തുടരുമെന്നതാണ് ഒരു പ്രധാന ചോദ്യം അല്ലെങ്കിൽ പ്രധാന വെല്ലുവിളി ക്ലൌഡ് കോംപ്രമൈസ് ലീക്ക് ഡാറ്റ ചോർത്തുന്നത് ഡാറ്റയുടെ നിയന്ത്രണം നഷ്ടപ്പെടുമോ എന്ന ഭയം ഉണ്ട് ഇത് മറ്റൊരു പ്രശ്നമാണ് ക്ലൌഡ് ദാതാവ് തന്നെ സത്യസന്ധത ഇല്ലാതെ ഡാറ്റയിലേക്ക് നോക്കുകയും ചെയ്യും അത് കാര്യങ്ങളിൽ എത്രമാത്രം വിശ്വാസമുണ്ട് എന്ന ചോദ്യത്തിലേക്ക് എത്തുന്നു ദാതാവിനെ വിശ്വസിക്കുക എന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ മറ്റൊരു വെല്ലുവിളിയാണ് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ടെങ്കിലോ പ്രതിരോധ സേവന ദാതാവിൽ വിശ്വാസം വളർത്തിയെടുക്കേണ്ടതുണ്ടെങ്കിലോ എന്നതിൽ ശ്രെദ്ധിക്കണം ധാരാളം ജോലികൾ നടക്കുന്നു സമയം അനുവദിക്കുകയാണെങ്കിൽ ഇതിന്റെ ചില വശങ്ങൾ കാണാൻ നമ്മൾ ശ്രമിക്കും ഈ ടാസ്ക് റിസ്ക് കഴിവ് എങ്ങനെ ഒന്നിച്ചു നമ്മൾക്ക് കൂടുതൽ സുരക്ഷയുടെ ഒരു സംവിധാനം ഉണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ജോലിക്കായി എനിക്ക് കൂടുതൽ വിശ്വസനീയമായ ദാതാവിനെ എങ്ങനെ തിരഞ്ഞെടുക്കാനാകും ഒന്നിൽ കൂടുതൽ ദാതാക്കളുണ്ടെങ്കിൽ അത് ഒരു രഹസ്യാത്മകതയാണ് മറ്റൊരു വശം സമഗ്രതയാണ് ക്ലൌഡ് ദാതാവ് കൃത്യമായി കണക്കുകൂട്ടലുകൾ നടത്തുന്നുവെന്ന് എനിക്ക് എങ്ങനെ അറിയാം അതിനാൽ ഞാൻ കുറച്ച് പ്രോസസ്സിംഗ് നടത്തുന്നു എന്നിട്ട് ഡാറ്റയും പ്രോസസ്സുംകാര്യങ്ങളാണെന്ന് ഞാൻ എങ്ങനെ അറിയും അതിന്റെ ഫലം പ്രതീക്ഷിക്കുന്നു ഒരു ക്ലൌഡ് ദാതാവ് എന്റെ ഡാറ്റയെ മാറ്റം വരുത്താതെ ശരിക്കും സംഭരിച്ചുവെന്ന് ഞാൻ എങ്ങനെ ഉറപ്പാക്കും ശരിയായ ലഭ്യത ഞാൻ എങ്ങനെ ഉറപ്പാക്കും സേവന നിഷേധത്തിൽ ദാതാവിനെ ആക്രമിക്കുകയാണെങ്കിൽ സിസ്റ്റം ക്ലയന്റിലേക്ക് ഇറങ്ങും ദാതാവിന്റെ അറ്റത്ത് ഒരു ഡോസ് തരം ആക്രമണമുണ്ടെങ്കിൽ ദാതാവ് ഒരു നിഷേധത്തിൽ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ നിർണ്ണായക സിസ്റ്റം ക്ലയന്റിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന മറ്റൊരു ലഭ്യതയാണിത് ക്ലൌഡ് ദാതാവ് ബിസിനസ്സിൽ നിന്ന് പുറത്തുപോയാലും എന്റെ ഡാറ്റയ്ക്കും പ്രോസസ്സുകൾക്കും എന്ത് സംഭവിക്കും എന്നതിനാൽ എന്റെ കാര്യങ്ങൾക്ക് എന്ത് സംഭവിക്കും ഇവ വളരെ തന്ത്രപരമായ പ്രശ്നങ്ങളാണ് മാത്രമല്ല നമ്മൾ കണ്ടതുപോലെ ഇത്തരം വെല്ലുവിളികൾ ഡാറ്റാ സ്ഥാനങ്ങൾ പരിഹരിക്കാൻ വളരെ പ്രയാസമാണ് നമ്മൾ ഡാറ്റാ ലൈഫ് സൈക്കിൾ ഡാറ്റ ലൊക്കേഷൻ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ പകർപ്പുകളും കരാർ എസ്എൽഎ അല്ലെങ്കിൽ റെഗുലേഷൻ അനുവദിച്ച സ്ഥലത്ത് മാത്രം സംഭരിക്കപ്പെടും ഡാറ്റ സ്ഥിതിചെയ്യുന്നിടത്ത് ഏത് വിപുലീകരണമാണ് മുതലായവയിൽ നമ്മൾക്ക് കൂടുതൽ നിയന്ത്രണമില്ല തുടർന്ന് ആർക്കൈവ് ആക്സസ് ലേറ്റൻസി ആണ് അതിനർത്ഥം നിങ്ങളുടെ ഡാറ്റ പ്രോസസ്സുകൾ ഒരേ സിസ്റ്റത്തിലാണ് ഉള്ളതെന്ന് നമ്മൾ കണ്ട മറ്റൊരു പ്രശ്നം പരമ്പരാഗത കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നിങ്ങളുടെ ഡാറ്റ എവിടെയെങ്കിലും സ്ഥിതിചെയ്യുന്നു അവിടെ എനിക്ക് കാര്യങ്ങളിൽ യാതൊരു നിയന്ത്രണവുമില്ലാത്ത ഡാറ്റയിൽ എന്റെ ആപ്ലിക്കേഷൻ ഫംഗ്ഷൻ പ്രോസസ്സുകൾ പോലും ഞാൻ സ്ഥിതിചെയ്യുന്ന സ്ഥലത്ത് സ്ഥിതിചെയ്യുന്നു എസ്എൽഎകളും കാര്യങ്ങളും നോക്കുകയല്ലാതെ മറ്റ് നിയന്ത്രണങ്ങളില്ല ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ് മറ്റ് തന്ത്രപ്രധാനമായ പ്രശ്നങ്ങൾ വരുന്നത് കാരണം ഇന്റർ ക്ലൌഡ് ആശയവിനിമയം ഉണ്ടെങ്കിൽ ക്ലൌഡ് 1 ലെ ഒരു പ്രക്രിയ പോലെ ക്ലൌഡ് 2 ആശയവിനിമയം നടത്തുന്നത് പോലെ പ്രശ്നങ്ങൾ കൂടുതൽ തന്ത്രപരമാകും ക്ലൌഡ് 3 നോട് മറ്റു രണ്ടും ആശയവിനിമയം നടത്തുന്നു അങ്ങനെ ചെയ്യുമ്പോൾ ഉത്ഭവിക്കുന്ന ക്ളൌഡ്ലേക്ക് അത് തിരികെ വരുന്നുവെന്ന് ഉറപ്പിക്കാൻ കഴിയും എനിക്ക് ഒരു സാധ്യതയുണ്ടോ അതോ ആക്സസ് നിയന്ത്രണത്തിന്റെ അടിസ്ഥാന തത്ത്വം ലംഘിക്കുന്നതിനുള്ള ഒരു അവസരമുണ്ടോ എനിക്ക് ഒരു ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയും അല്ലാത്തപക്ഷം എനിക്ക് അത് ആക്സസ് ചെയ്യാൻ കഴിയില്ല ഒരു ഇന്റർ ക്ലൌഡ് ആശയവിനിമയ കാര്യങ്ങൾ ശരിയായിരിക്കുമ്പോൾ ഇത് ഒരു പ്രധാന വെല്ലുവിളിയാണ് നിങ്ങൾക്ക് വ്യത്യസ്ത ദാതാക്കളുള്ള ഉപയോക്താക്കളായതിനാൽ ഒരു ദാതാവിന് മറ്റ് ചില സേവനങ്ങൾക്കായി ഉപഭോക്താവാകാൻ കഴിയും മാത്രമല്ല ഇത് മറ്റൊരു പ്രശ്നമാണ് ഹൈപ്പർവൈസർ വിട്ടുവീഴ്ച ചെയ്താൽ വിഎം വിഎംഎം വിട്ടുവീഴ്ച ചെയ്താൽ എന്ത് സംഭവിക്കും എന്നതുപോലുള്ള മറ്റ് അടിവരയിടുന്ന ഭീഷണികളും ഉണ്ട് അപ്പോൾ എല്ലാ വിഎമ്മുകളും വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ എല്ലാ വിഎമ്മുകളും വിഎം പോലുള്ള ഒരു സ്പിന്നിലാണ് അത് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് മുകളിലേക്കോ താഴേക്കോ ആണ് നമ്മൾക്ക് നിയന്ത്രണമില്ല ഐഎഎഎസ് തലത്തിൽ തന്നെ വെല്ലുവിളികളുണ്ട് ഇവ ആക്സസ് ചെയ്യുക ഒടുവിൽ ക്ലൌഡ് ദാതാക്കളെയോ മറ്റോ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെ പരസ്പരം വിശ്വസിക്കാൻ കഴിയും എങ്ങനെയാണ് കാര്യങ്ങളിൽ എസ്എൽഎ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഒന്നിൽ കൂടുതൽ ദാതാക്കൾ ഉണ്ടോ എന്നത് ഒരു സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഒരു മെക്കാനിസം ഉണ്ടോ എന്ന് എനിക്ക് അറിയാം ഇതാണ് വ്യത്യസ്ത വിശ്വാസമെന്ന് പറയാം ഈ ഘടകങ്ങളെല്ലാം നോക്കുന്നതിൽ ട്രസ്റ്റ് കോമ്പീറ്റൻസ് റിസ്ക് ഗൌരവമേറിയ പങ്ക് വഹിക്കുന്നു ക്ലൌഡ് സുരക്ഷ അല്ലെങ്കിൽ ക്ലൌഡിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ഈ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിനെ ജനപ്രിയമാക്കുന്നതിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്നു റിസോഴ്സ് ലഭ്യതയും പരമ്പരാഗത ഹൌസ് വേഴ്സസ് ക്ളൌഡ് മുതലായവയുടെ ക്രോസ് ആനുകൂല്യങ്ങളും പരമ്പരാഗതമായി ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് കാര്യങ്ങൾ വരെ ഈ സുരക്ഷാ പ്രശ്നങ്ങൾ ഒരു പ്രധാന തടസ്സമായി മാറുന്നു ഇതുപയോഗിച്ച് നമ്മളുടെ ഇന്നത്തെ പ്രഭാഷണം നിർത്തുന്നു തുടർന്നുള്ള പ്രഭാഷണത്തിൽ ക്ലൌഡിന്റെ മറ്റ് വശങ്ങൾ കാണുകയും ചെയ്യാം